വെക്റ്റർ പൊട്ടൻഷ്യലിനുള്ള സമവാക്യം കറന്റ് ഡെൻസിറ്റി ഉപയോഗിച്ച് ഇതുവരെ നമ്മൾ മാഗ്നെറ്റിക് ഫീൽഡ് B മായി വെക്റ്റർ ഫീൽഡ് A എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യുകയായിരുന്നു നമുക്കറിയാം വെക്റ്റർ ഫീൽഡ് A ന് കറന്റ് ഡെൻസിറ്റി j ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്വേഷൻ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പോയിസൺസ് ഇക്വേഷൻ Poisson's equation അനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V ഉപയോഗിച്ച് എഴുതുന്നത് പോലെയാണ് അങ്ങനെ A നേരിട്ട് കണ്ടു പിടിച്ചു കഴിഞ്ഞാൽ ഇതുപയോഗിച്ച് അതായത് A യുടെ കേൾ കണ്ടുപിടിച്ചാൽ മാഗ്നെറ്റിക് ഫീൽഡ് B ലഭിക്കുന്നതാണ് ഈ രീതി ഒരു നിശ്ചിത കറന്റ് വിന്യാസത്തിനുള്ള മാഗ്നെറ്റിക് ഫീൽഡ് B കാണാനുള്ള ഒരു നല്ല വഴിയാണ് അതുതന്നെയാണ് ഇതിനുള്ള പ്രചോദനവും ഈ ഇക്വേഷൻ ലഭിക്കാനായി നമ്മൾ ആദ്യം A B എന്ന ഇക്വേഷനിൽ നിന്ന് തുടങ്ങാം ഇതിന്റെ രണ്ടുവശത്തും കേൾ എടുത്താൽ കറന്റ് ഡെൻസിറ്റി j ഉപയോഗിച്ച് കേൾ B എഴുതിയാൽ ഇക്വേഷന്റെ ഇടതുവശത്തുള്ള പദം വെക്റ്റർ ഐഡൻറിറ്റി ഉപയോഗിച്ച് മാറ്റി എഴുതാം അപ്പോൾ ഇവിടെ 2 എന്നത് ലാപ്ലാഷിയൻ ഓപ്പറേറ്റർ ആണ് ഇവിടെ വെക്റ്റർ A യുടെ ലാപ്ലാഷിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A യുടെ എല്ലാ കംപോണന്റിന്റെയും ലാപ്ലാഷിയൻ എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്നാണല്ലോ ഈ ഇക്വേഷനിലേക്കെത്താൻ നമ്മൾ എടുത്തിരുന്ന കണ്ടീഷൻ A 0 എന്നായിരുന്നു മറ്റൊരു പ്രധാന കാര്യം ഈ ഇക്വേഷനിൽ കാണുന്ന കറന്റ് സ്റ്റെഡി കറന്റ് ആണെന്നുള്ളതാണ് ഇവിടെ 2 A യുടെ ഓരോ കംപോനെൻറ്റും അനുബന്ധ 0 j കംപോണെൻറ്റുമായി താരതമ്യം ചെയ്യണം അപ്പോൾ ഈ ഇക്വേഷനുകൾ എല്ലാം തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളെടുത്ത 2 V 0 എന്ന പോയിസോൺസ് ഇക്വേഷനു സമാനമാണ് ഈ ഇക്വേഷനിലെ 1 0 എന്നതിന് പകരം 0 യും എന്നതിനുപകരം jx ഉം V എന്നതിന് പകരം Ax ഉം ആണ് നമുക്കിവിടെ ഉള്ളത് ഇതുപോലെ തന്നെ Y Z കംപോണന്റുകളും എടുക്കണം അപ്പോൾ ഇതിനും പോയിസോൺസ് ഇക്വേഷന്റെ അല്ലെങ്കിൽ അതിനോട് സമാനമായ സൊല്യൂഷൻ എടുക്കാവുന്നതാണ് ഫ്രീ സ്പേസ് ലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനുള്ള സൊല്യൂഷൻ നമുക്കറിയാം അതുപോലെ ഇവിടെ ഈ ഇക്വേഷനുകളെല്ലാം ചേർത്ത് എന്നെഴുതാം ഇതാണ് വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനോട് സമാനമാണ് എന്നാൽ ഇതിൽ അതിൽനിന്നും വ്യത്യസ്തമായി 3 കംപോണെന്റുകൾ ഉള്ളതായി കാണാം കാരണം ഇതൊരു വെക്റ്റർ പൊട്ടൻഷ്യൽ ആണല്ലോ അപ്പോൾ നമുക്ക് കറന്റ് ഡെൻസിറ്റി ലഭിച്ചുകഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും പിന്നീട് ഇതിന്റെ കേൾ എടുത്ത് മാഗ്നെറ്റിക് ഫീൽഡ് B കാണാനും സാധിക്കും അടുത്തതായി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഉദാഹരണം1 Z ആക്സിസിലുള്ള ഒരു വയറിൽ കൂടി I കറന്റ് ഒഴുകുന്നെന്നു സങ്കല്പിക്കാം ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ നേരിട്ട് കണ്ടു പിടിക്കാൻ പോകയാണ് ആദ്യം നമുക്കിവിടെ കറന്റ് ഡെൻസിറ്റി നോക്കാം നമുക്കറിയാം ഇവിടെ s 0 ആയ ലൈനിൽ മാത്രമേ കറന്റ് ഒഴുകുന്നുള്ളൂ എന്ന് നിർവചനമനുസരിച്ച് ഇവിടെ I കറന്റ് Z ദിശയിൽ ഒഴുകുന്നത് കാരണമുള്ള കറന്റ് ഡെൻസിറ്റി j യുടെ ദിശ Z ആക്സിസിലൂടെ തന്നെയായിരിക്കും s 0 ആകുമ്പോൾ കറന്റ് ഡെൻസിറ്റി ഇൻഫിനിറ്റി ആകുന്നു അപ്പോൾ കറന്റ് ഡെൻസിറ്റി നോർമലൈസ് ചെയ്യാൻ 2 s കൊണ്ട് ഹരിച്ചിട്ടുണ്ട് ഇക്വേഷൻ ശരിയാണോ എന്ന് നോക്കാം വയറിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഛേദതല വിസ്തീർണം അഥവാ ക്രോസ്സ് സെക്ഷനൽ ഏരിയ എടുത്താൽ ഇവിടെ 2 sds z എന്നത് നമ്മൾ എടുത്ത സൂക്ഷ്മ അംശത്തിന്റെ ഏരിയ ആണ് അപ്പോൾ നമുക്ക് എന്ന് ലഭിക്കുന്നു എടുത്തിരിക്കുന്ന കറന്റ് ഡെൻസിറ്റി ശരിയാണെന്നർത്ഥം ഇത് നമുക്ക് നേരിട്ട് വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാനായി ഉപയോഗിക്കാം വെക്റ്റർ പൊട്ടൻഷ്യൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അനന്തമായി നീണ്ടുകിടക്കുന്ന വൈദ്യുത പ്രവാഹമുള്ള ഒരു വയറാണല്ലോ ഇത് മുതൽ വരെ നീണ്ടുകിടക്കുന്നു എന്നർത്ഥം ഇതിൽ j സബ്സ്റ്റിട്യൂട്ട് ചെയ്താൽ ഇവിടെ dV 2 s ds dz എന്നെടുത്തിരിക്കുന്നു ഇത് ഒരു ഇൻഫിനിറ്റ് നീളമുള്ള വയർ ആയതിനാൽ നിങ്ങൾക്കറിയാം Z ആക്സിസിലുള്ള ഏതൊരു ഭാഗം എടുത്താലും വെക്റ്റർ പൊട്ടൻഷ്യൽ A ഒന്നുതന്നെ ആയിരിക്കുമെന്ന് അതുകൊണ്ടുതന്നെ നമുക്ക് z 0 വിലുള്ള പൊട്ടൻഷ്യൽ കാണാം ഇവിടെ s 0 ഇക്വേഷനിൽ 2 s തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടും ds എന്നതിൽ നിന്നും s 0 എന്ന് ലഭിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്തതായി നമുക്ക് ഈ ഇന്റഗ്രൽ എത്രയെന്നു നോക്കാം നമുക്ക് z s എന്നെടുക്കാം അപ്പോൾ ഇതിലെ s ക്യാൻസൽ ചെയ്ത് ഇക്വേഷൻ പുനഃക്രമീകരിച്ചാൽ നമുക്ക് കിട്ടുന്നത് d എന്നാണല്ലോ ഇതിന്റെ ഇന്റഗ്രൽ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ln എന്നാണ് അതായത് ലിമിറ്റ് പ്രയോഗിക്കുമ്പോൾ ഇത് കൂടുതൽ സങ്കീർണമാകുന്നു എന്നർത്ഥം അതുകൊണ്ടുതന്നെ ഇത് ചെയ്യുന്നതിനായി L മുതൽ L വരെ നീണ്ടു കിടക്കുന്ന ഒരു വയർ എടുത്ത് ഇന്റഗ്രേഷൻ ലിമിറ്റ് L തൊട്ട് L വരെ എടുക്കണം അപ്പോൾ ഇത് Z ദിശയിലാണ് ഉള്ളത് ഇതിന്റെ ഇന്റഗ്രേഷൻ 0 L ആക്കിയിട്ട് ഇക്വേഷൻ മാറ്റി എഴുതാം അപ്പോൾ ഇവിടെയും നേരത്തെ ചെയ്ത z s എന്ന സബ്സ്റ്റിട്യൂഷൻ ചെയ്യാം അപ്പോൾ എന്ന് ലഭിക്കും നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും s ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുന്നത് d എന്നാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് താഴത്തെ ലിമിറ്റ് പ്രയോഗിച്ചാൽ 0 0 0 1 1 0 അപ്പോൾ L ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് എന്നാകുന്നു അതായത് L ഇൻഫിനിറ്റി ആകുമ്പോൾ ഇതിലെ ഒന്നാമത്തെ പദം ഇൻഫിനിറ്റി ആകുന്നു ഇത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് കാരണം ഇത് ഇൻഫിനിറ്റിയിൽ നിന്നും ഉള്ള മാറ്റമായി കണക്കാക്കാം അപ്പോൾ s ന് അനുസരിച്ചുള്ള വ്യത്യാസം ഇവിടെ z മായി ബന്ധമില്ല അതുകൊണ്ടുതന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം ഉദാഹരണം 2 ഇവിടെ നമുക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ഷീറ്റ് എടുക്കാം മാഗ്നെറ്റിക് ഫീൽഡും വെക്റ്റർ പൊട്ടൻഷ്യൽ A യും നമ്മൾ നേരത്തെ കണ്ടതാണ് ഇപ്പോൾ ഇത് നേരിട്ട് കണ്ടുപിടിക്കാം X ദിശയും Y ദിശയും ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാനായി ആ സ്ലൈഡ്സ് ഒന്നുകൂടെ നോക്കുന്നത് നല്ലതായിരിക്കും പേപ്പറിന്റെ പ്രതലത്തിനു ലംബമായി Z ദിശ കാണാം ഷീറ്റിലുള്ള സർഫേസ് കറന്റ് K Y ദിശയിൽ കാണിച്ചിരിക്കുന്നു അതായത് KKy ഇവിടെ ഏരിയ YZ തലത്തിലാണ് കറന്റ് ഡെൻസിറ്റി Z ദിശയിൽ z 0 എന്ന രീതിയിൽ ആയിരിക്കും അപ്പോൾ അതായത് Y ദിശയിൽ ആയിരിക്കും ഇത് ശരിയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനായി നമുക്ക് l നീളത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സൂക്ഷ്മ ക്രോസ്സ് സെക്ഷൻ എടുക്കാം ഈ ക്രോസ്സ് സെക്ഷനിൽ j r dS ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ jr

yKl എന്ന് ലഭിക്കും Kl എന്നത് l നീളത്തിലുള്ള ഷീറ്റിൽ കൂടെ ഒഴുകുന്ന കറന്റ് ആണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന j ശരിയാണ് എന്നർത്ഥം അതായത് r അകലത്തിലുള്ള ഒരു ബിന്ദുവിലുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്കറിയാം ഇതൊരു പരന്ന ഷീറ്റ് ആണെന്ന് അതുകൊണ്ടു തന്നെ ലഭിക്കാൻ പോകുന്ന റിസൾട്ട് X Y ആക്സിസുകൾ എടുക്കുന്നതിനെ ആശ്രയിച്ചു മാറുന്നില്ല കാരണം ഇത് XY തലത്തിൽ അനന്തമായി പരന്ന് കിടക്കുകയാണ് അപ്പോൾ x 0 യിൽ വെക്ടർ പോട്ടെൻഷ്യൽ A കാണുന്നതും മറ്റേതെങ്കിലും X ൽ A കണ്ടുപിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നു അതായത് ഇവിടെ x 0 ൽ വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടാൽ മതിയാകും അപ്പോൾ നമ്മളിവിടെ Y ദിശയിൽ K സർഫേസ് ചാർജുള്ള ഒരു പരന്ന ഷീറ്റ് കാരണമുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ കാണുകയാണ് ഇതിലുള്ള സർഫേസ് കറന്റ് K Y ദിശയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ z കാരണം z 0 എന്ന് ലഭിക്കുന്നു അപ്പോൾ ഇത് ഒരു ഏരിയ ഇന്റഗ്രൽ ആണെന്ന് മനസിലാക്കിയാൽ ഇതിന്റെ ഇന്റഗ്രേഷൻ വളരെ എളുപ്പമായിതീരും ഈ ഏരിയ ഇന്റഗ്രലിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റസ് അല്ലെങ്കിൽ പ്ലെയിൻ പോളാർ കോർഡിനേറ്റസ് ഉപയോഗിച്ച് മാറ്റി എഴുതാം ഇതനുസരിച്ച് dx dy 2 sds എന്നും x 2 y 2 s2 എന്നും എടുക്കാം അപ്പോൾ dx dy എന്ന ഏരിയ ഇവിടെ എടുക്കുന്നതിനു പകരം നമുക്ക് Z ആക്സിസിനു സമമിതിയിൽ അഥവാ സിമെട്രിക് ആയി ഏരിയ എടുത്ത് മുഴുവൻ ഏരിയയിലേക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഇക്വേഷൻ മാറ്റി എഴുതാവുന്നതാണ് അതായത് 2 ക്യാൻസൽ ചെയ്താൽ ഇത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് അത് ചെയ്തുനോക്കാം അപ്പോൾ നമുക്ക് മനസിലാക്കാം ഏതൊരു ബിന്ദുവിലേയും വെക്റ്റർ പൊട്ടൻഷ്യൽ A z നെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ എന്നും x y ഇവയുമായി ബന്ധമൊന്നുമില്ല എന്നും അപ്പോൾ എന്ന് എഴുതാം s2 z2 Y2 എടുത്താൽ Yd y s ds അപ്പോൾ Y ക്യാൻസൽ ചെയ്യപ്പെടുന്നു അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇത് ഒരു കോൺസ്റ്റന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇത് ഒഴിവാക്കാം അപ്പോൾ ഇത് നേരത്തെ മാഗ്നെറ്റിക് ഫീൽഡ് B ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് തന്നെ ആണ് കറന്റ് വിന്യാസത്തിൽ നിന്നും A നേരിട്ട് കണ്ടുപിടിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ കണ്ടുകഴിഞ്ഞു A ലഭിച്ചതിനുശേഷം A കണ്ടുകഴിഞ്ഞാൽ മാഗ്നെറ്റിക് ഫീൽഡ് B ലഭിക്കുന്നതാണ്